ഓൺ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ ബൈ പ്രൊഫ് മുഖോപാധ്യായ് ഡിപ്പാർട്മെന്റ് ഓഫ് ഇലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് IIT ഖരഗ്പൂർ ടോപ്പിക്ക് ലെക്ചർ 29 സീക്വൻസ് കൺട്രോളിന്റെ ഘടനാപരമായ രൂപകല്പന സമീപനംതുടർച്ച സൂചക പദങ്ങൾ സ്റ്റെപ് ടൈം സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ് മെഷീൻ ജമ്പ് സ്കാൻ ഇത് അസംഘടിതമായ പ്രോഗ്രാമിന്റെ ഉത്തമ ഉദാഹരണം ആണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0025 ഈ പാഠത്തിന് മുന്നേ നമ്മൾ ചെയ്തത് ഇതൊക്കെയാണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0030 വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് RLL പ്രോഗ്രാമിന് വേണ്ടിയുള്ള സംഘടിതമായ രൂപകല്പന സമീപനം പ്രോഗ്രാം ഭാഗം കഴിയാറായതുകൊണ്ടാണ് ഇവിടെ ഇത് പരാമർശിച്ചത് പ്രോഗ്രാം ഭാഷകളിൽ ഒന്ന് IEC 1131 ആണ് IEC എന്നാൽ ഇൻറർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0100 1131 ഒരു സംഖ്യ ആണ് PLC പ്രോഗ്രാമിൽ ഇത് ഒരു രാജ്യാന്തര താരതമ്യാധാരം ആണ് ഒപ്പം ഇത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0109 ഫങ്ക്ഷണൽ ബ്ലോക്ക് ഡയഗ്രം അല്ലെങ്കിൽ ലാഡർ ഡയഗ്രം ഒക്കെയാണ് ഗ്രാഫിക്കൽ ലാംഗ്വേജ് അതെസമയം ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ലാംഗ്വേജ് ഉണ്ട് ഇവയ്ക്ക് ഉദാഹരണം സ്ട്രക്ച്ചർഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് എന്നിവയാണ് നമ്മൾ പഠിക്കുന്നത് RLL ആണെങ്കിലും ഓരോ നിർമാതാവും ഉപയോഗിക്കുന്നത് വേറെ പ്രോഗ്രാം ലാംഗ്വേജ് ആയിരിക്കും അവയിൽ ചിലതാണു ഇവിടെ കൊടുത്തിട്ടുള്ളത് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0133 ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് പടിപടിയായി ഉള്ള രൂപകൽപനയാണ് ഇനി സ്റ്റേറ്റ് ട്രാൻസിഷൻ ലോജിക് രൂപകൽപ്പന ചെയ്യാൻ വേറെ ഒരു ലാംഗ്വേജ് നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ വികസിതമായ ലാംഗ്വേജ് നമ്മൾ കാണും ഒപ്പം അതിൻറെ ഗുണങ്ങളും കാണും ഇതിൻറെ ഒരു ഗുണം എന്തെന്നാൽ ഒരാൾ എഴുതിയ പ്രോഗ്രാം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0220 പ്രോഗ്രാം മൊഡ്യൂൾ ഘടനപരം ആകുമ്പോൾ പ്രോഗ്രാം വികസനത്തെയും ഒപ്പം പ്രോഗ്രാം സംരക്ഷണത്തെയും സഹായിക്കും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം നവീകരണത്തിനും ഇത് സഹായിക്കും നിങ്ങൾക്ക് പുതിയ ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ വളരെ ലളിതമാണ് അതിൻറെ സ്റ്റേറ്റ് ഡയഗ്രാം മാറ്റണം അപ്പോൾ പുതിയ സ്റ്റേറ്റ് കൂട്ടിച്ചേർക്കപെടണം അതേപോലെ കുറച്ചു ട്രാൻസിഷൻ പുതിയ സ്റ്റേറ്റ് ഇൽ കൊണ്ടുവരണം പിന്നെ ലോജിക് കോഡ് മാറ്റണം അതായത് സ്റ്റേറ്റ് ലോജിക്കിൽ ട്രാൻസിഷൻ കൊണ്ടുവരണം നിങ്ങൾക്കിപ്പോൾ കൃത്യമായി അറിയാം എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് ഇതാണ് പ്രോഗ്രാം ഘടനപരം ആകുമ്പോൾ ഉള്ള ഗുണങ്ങൾ അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0307 എല്ലാ ഭാഗങ്ങളും എല്ലായ്പ്പോഴും കണക്കു കൂട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല ചില ഭാഗങ്ങൾ മാത്രമേ സജീവമായി ഇരിക്കുക യുള്ളൂ ബാക്കി ഭാഗങ്ങൾ നിർജീവം ആയിരിക്കും ഇപ്പോൾ നിർജീവമായി ഇരിക്കുന്നത് ഉപേക്ഷിച്ചാൽ നമ്മൾക്ക് കണക്ക് കൂട്ടൽ സമയം ലാഭിക്കാം അങ്ങനെ സിസ്റ്റം പ്രകടനം മികച്ചതാക്കാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0329 ഒപ്പം ഇത് കുറേ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുന്നതിന് പിന്തുണ കൊടുക്കും ഇത് വളരെ പ്രധാനമാണ് സിസ്റ്റത്തിൽ എപ്പോഴും ഒന്നിൽ കൂടുതൽ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ചു നടക്കണം ഇതാണ് മൈക്രോപ്രൊസസറിൽ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻറെ മൾട്ടിടാസ്കിങ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും മൾട്ടിടാസ്കിങ് നിർവഹിക്കണം അതിനുള്ള സാങ്കേതികവിദ്യ നമ്മുടെ പക്കൽ ഉണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന താരതമ്യാധാരം ആണ് സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് സമകാലവർത്തിയായ പ്രവർത്തനങ്ങൾ യോജിച്ച് രൂപകൽപ്പന ചെയ്യാൻ സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് ഉപയോഗിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0417 എപ്പോഴും ഓർക്കുക ഇത് ഉപയോഗിക്കുന്നത് സിസ്റ്റം ഘടന വിവരിക്കാൻ ആണ് അതല്ലാതെ പ്രോഗ്രാം എഴുതാൻ അല്ല ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം പല ഫങ്ക്ഷൻ കൊണ്ട് സംയോജിപ്പിച്ച ഒരു ഘടന ആയി മാറും അപ്പോൾ നിങ്ങൾ സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് അടിസ്ഥാനത്തിൽ ഭരിക്കുന്നത് പല ഫങ്ക്ഷൻ എപ്പോൾ എങ്ങനെ വഹിക്കണമെന്നാണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0448 അതിനെ നമ്മൾ പ്രസ്താവിക്കുന്നത് SFC പ്രോഗ്രാം മൊഡ്യൂൾ ഘടന മാത്രമാണ് പറയുന്നത് അതേസമയം യഥാർത്ഥ പ്രോഗ്രാം PLC പ്രോഗ്രാമിങ് ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതണം ഉദാഹരണത്തിന് RLL അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0513 നമ്മൾക്ക് പെട്ടെന്ന് SFC ഘടന നോക്കാം ഇത് സ്റ്റേറ്റ് മെഷീൻ ഘടന പോലെ തന്നെയാണ് ബാക്കിയുള്ളവ നമ്മൾക്ക് പരിചിതം തന്നെയാണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0526 അടിസ്ഥാനപരമായി സ്റ്റേറ്റ് ഒപ്പം ട്രാൻസിഷൻ പോലെ തന്നെ ഇവിടെയുള്ളത് സ്റ്റെപ് ഒപ്പം ട്രാൻസിഷൻ ആണ് ഓരോ സ്റ്റെപ് ഓരോ കൺട്രോൾ പ്രോഗ്രാം മൊഡ്യൂൾ ആണ് അത് RLL അല്ലെങ്കിൽ ഏതെങ്കിലുമൊരു പ്രോഗ്രാമിങ് ആയിരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു ഫങ്ക്ഷൻ ആണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0539 സ്റ്റെപ് രണ്ട് തരത്തിൽ ആവാം ആദ്യത്തേത് പ്രാഥമികമായ സ്റ്റെപ് ഇത് രണ്ട് തരത്തിൽ ആവാം ഒന്ന് പവർ ഓൺ ആയതിനു ശേഷം നമ്മൾ ആദ്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ രണ്ടാമത്തേത് പ്രോഗ്രാം റീസെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ റീസെറ്റ് നടത്താൻ സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ടിൽ ചില നിർദേശങ്ങൾ ഉണ്ട് അതിനാൽ റീസെറ്റ് നടന്ന ശേഷം നിർവഹിക്കുന്ന സ്റ്റെപ് ആണ് പ്രാഥമികമായ സ്റ്റെപ് ഇതിൽ നമ്മൾ വേരിയബിൽ മധ്യവർത്തിയായ വേരിയബിൽ സ്റ്റേറ്റ് എന്നിവയ്ക്ക് കുറച്ച് മൂല്യങ്ങൾ കൊടുക്കും അടുത്തത് മുറപ്രകാരമുള്ള സ്റ്റെപ് ആണ് ഇത് ട്രാൻസിഷൻ ലോജിക് ആശ്രയിച്ചിരിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0625 ഒരു സ്റ്റെപ് നിർജീവം ആകുമ്പോൾ സ്റ്റേറ്റ് പ്രാരംഭ മൂല്യത്തിൽ പോവുകയും സജീവമായ സ്റ്റെപ് മാത്രമേ നിരീക്ഷിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് സ്കാൻ സമയം ലാഭിക്കാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0636 ഓരോ ട്രാൻസിഷൻ ഒരു കൺട്രോൾ പ്രോഗ്രാം മൊഡ്യൂൾ ആണ് ഇത് ലഭ്യമായ സിഗ്നൽ ഓപ്പറേറ്റർ ഇൻപുട്ട് എന്നിവ നിരീക്ഷിക്കുന്നു ഒരു ട്രാൻസിഷൻ വേരിയബിൽ സജീവമായാൽ തുടർന്ന് വരുന്ന സ്റ്റെപ്കൾ സജീവമാകുന്നു ഇവിടെ സ്റ്റെപ്കൾ എന്ന് പറയാൻ കാരണം പൊതുവേ ഒരു സ്റ്റെപ് ഒരു ട്രാൻസിഷനിൽ ആണ് നയിക്കപ്പെടുന്നത് പക്ഷേ SFC സമകാലവർത്തിയായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രാപ്തമാണ് അതിനാൽ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞ് രണ്ടു സമകാലവർത്തിയായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസിഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്കൾ സജീവം ആകുമെന്നും ബാക്കിയുള്ളവ നിർജീവം ആകുമെന്നും പറഞ്ഞത് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0723 സജീവമായ സ്റ്റേറ്റ്ഇൽ നിന്നുണ്ടാകുന്ന ട്രാൻസിഷൻ മാത്രമേ നിരീക്ഷിക്കപ്പെടുകയുള്ളൂ അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0739 ട്രാൻസിഷൻ സങ്കീർണ്ണമായ ലോജിക് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആകാം അല്ലെങ്കിൽ നമ്മളുടെ ഉദാഹരണത്തിലെ പോലെ ലളിതമായ ഒരു വേരിയബിൽ ആകാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0752 അതിനാൽ ഈ ഉദാഹരണത്തിൽ S1 പ്രാഥമികമായ സ്റ്റെപ് ആണ് S1 എന്ന സ്റ്റേറ്റ് സജീവം ആണെങ്കിൽ അതോടൊപ്പം T1 നിബന്ധന ശരിയായാൽ നമ്മൾ S2ഇൽ എത്തും അടുത്തത് T2 നിബന്ധന ശരിയായാൽ നമ്മൾ S3ഇൽ എത്തും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0817 ഒന്നാമത്തെ സ്കാനിൽ സജീവമായത് എന്തൊക്കെയാണ് എന്നു നോക്കിയാൽ S1 ഒപ്പം T1 സജീവമാണ് അതേപോലെ രണ്ടാമത്തെ സ്കാനിൽ T1 സജീവമായത് S2ഇൽ എത്തി അവിടെ T2 സജീവമാണ് മൂന്നാമത്തെ സ്കാനിൽ T2 നിബന്ധന പാലിക്കില്ല അതിനാൽ ഇത് രണ്ടും സജീവമായി തുടരും നാലാമത്തെ സ്കാനിൽ T2 നിബന്ധന പാലിക്കും അതിനാൽ S3 സജീവം ആകും ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ സജീവം ആകും അങ്ങനെ ഒരു സമയത്ത് സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ടിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ സജീവം ആയിരിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0915 ഇങ്ങനത്തെ കുറേയേറെ പ്രോഗ്രാം ഘടനകൾ നമ്മൾക്ക് വിവരിക്കാം ഉദാഹരണത്തിന് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0922 ക്ഷമിക്കണം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 0926 ഉദാഹരണത്തിന് സിസ്റ്റം S1ഇൽ ആണെങ്കിൽ T1 T2 സജീവം ആകും ഇവരണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിബന്ധന പാലിക്കും ഇവിടെ T1 നിബന്ധന പാലിക്കും എന്നിരിക്കട്ടെ എന്നാൽ S2 സജീവം ആകും T2 നിബന്ധന പാലിച്ചാൽ S3 സജീവം ആകും അതേപോലെ രണ്ടും ഒരേ സമയം സജീവം ആകാം പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നടക്കുകയുള്ളൂ അതിനാൽ ഇവിടെ നമ്മൾ പിന്തുടരുന്ന സമ്പ്രദായം എന്തെന്നുവെച്ചാൽ ഇടത് ഭാഗത്തെ ട്രാൻസിഷൻ ആയിരിക്കും ആദ്യം സംഭവിക്കുന്നത് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1011 അതിനാൽ T1 ഒപ്പം T2 ഒരു സമയം നടന്നാൽ T1 ആയിരിക്കും സംഭവിക്കുന്നത് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1023 അതിനാൽ മറ്റേത് ഇതര മാർഗ്ഗമായിരുന്നു സിസ്റ്റം ഏതെങ്കിലും ഒരു മാർഗ്ഗം വഴി കടന്നുപോകാം പക്ഷേ രണ്ടും ഒരുമിച്ച് നടക്കില്ല അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1035 S1 സജീവമായാൽ ഒപ്പം T1 നിബന്ധന ശരിയായാൽ S2 സജീവം ആകും T1 നിബന്ധന തെറ്റിയാൽ ഒപ്പം T2 നിബന്ധന ശരിയായാൽ S3 സജീവം ആകും S1 നിർജീവം ആകും സമാനമായി രണ്ടും ഒരേസമയം സജീവം ആയാൽ ഇടത് ഭാഗത്തെ ട്രാൻസിഷൻ ആയിരിക്കും ആദ്യം സംഭവിക്കുന്നത് S4 സജീവം ആയാൽ ഒപ്പം T3 നിബന്ധന ശരിയായാൽ S6 സജീവം ആകും ഒപ്പം S4 നിർജീവം ആകും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1101 ഇതരമാർഗങ്ങൾ ഉള്ളതുപോലെ സമാന്തര മാർഗ്ഗങ്ങളുമുണ്ട് ഇതേ പോലത്തെ ഘടന പുതിയതാണ് ഇത് സാധാരണ സ്റ്റേറ്റ് മെഷീനിൽ വികസിപ്പിക്കാൻ കഴിയില്ല അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1116 അതിനാൽ ഈ ഘടന സമകാലവർത്തിയായ പ്രോഗ്രാമുകൾ നിർവഹിക്കാൻ കഴിയും ഇതിനെയാണ് മൾട്ടിടാസ്കിങ് എന്ന് പറയുന്നത് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1133 ഇവിടെ ഒരു സമാന്തര ശാഖയുണ്ട് അപ്പോൾ T1 സംഭവിച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റ് ഒരേസമയം സജീവം ആകും അതേപോലെ എപ്പോഴെങ്കിലും S4 സജീവം ആകും പക്ഷേ S5ഇൽ എത്താതെ T2 നടക്കാൻ പറ്റില്ല അതുകൊണ്ട് S4 ഒപ്പം S5 സജീവം ആയാലേ T2 സജീവം ആവുകയുള്ളൂ T2 നിബന്ധന ശരിയായാൽ S6ഇൽ പോകും അതുകഴിഞ്ഞ് S4 ഒപ്പം S5 നിർജീവം ആകും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1209 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് S1 സജീവം ആയാൽ ഒപ്പം T1 സംഭവിച്ചാൽ S2 ഒപ്പം S3 സജീവം ആകും അതോടൊപ്പം S1 നിർജീവം ആകും അഥവാ S4 ഒപ്പം S5 സജീവം ആയാൽ T2 സംഭവിച്ചാൽ S6 സജീവം ആകും ഒപ്പം S4 S5 നിർജീവം ആകും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1225 പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ ജമ്പ് ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് S1 S2 കഴിഞ്ഞതിനുശേഷം ഒരു ജമ്പ് ഉണ്ട് അത് T3 വന്നതിനുശേഷം തിരിച്ച് S1ഇൽ പോകും സമാനമായി ലൂപിൽ ഉള്ളിലും ജമ്പ് ഉണ്ടാകും അതായത് ഇവിടെ S5ഇൽ എത്താം അല്ലെങ്കിൽ S1ഇൽ എത്താം അടിസ്ഥാനപരമായി ഇങ്ങനത്തെ പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് SFCഇൽ നിർവഹിക്കാൻ സാധിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1253 ഒരു ജമ്പ് ആവൃത്തിയിൽ സമാന്തര സീക്വൻസ് നടക്കുമ്പോൾ അതിൻറെ ഉള്ളിലോട്ടു അല്ലെങ്കിൽ പുറത്തോട്ട് ജമ്പ് ചെയ്യാൻ സാധിക്കില്ല എല്ലാം ഒരുമിച്ച് അകത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ടു ജമ്പ് ചെയ്യണം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1315 സമാനമായി ഇതിൻറെ അന്ത്യത്തിൽ പ്രോഗ്രാം അവസാനിക്കും ട്രാൻസിഷൻ ഇല്ലാത്ത ഒരു സ്റ്റെപ് ഉണ്ടെങ്കിൽ അത് ഒരു നിർജീവമായ സ്റ്റേറ്റ് ആണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1328 ഇനി അഥവാ ഇത് സജീവമായാൽ പിന്നെ ഇതിനെ നിർജീവം ആകണമെങ്കിൽ SFC റീസെറ്റ് ആക്കാൻ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടിവരും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1333 നെസ്റ്റ് പ്രോഗ്രാമിങ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു സമകാലവർത്തിയായ ലൂപിൽ മറ്റൊരു സമകാലവർത്തിയായ ലൂപ്പ് ഇവിടെ T1 സംഭവിച്ചാൽ S2 ഒപ്പം S3 അഥവാ T2 സംഭവിച്ചാൽ ഒരേ സമയത്ത് S2 S4 ഒപ്പം S5 സജീവമാകും എന്നിട്ട് T3 സംഭവിക്കും പിന്നീട് S6ഇൽ എത്തും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1354 സമാനമായി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഇവിടെ ഒരു ഇതര മാർഗമുണ്ട് അതായത് S2ഇൽ T1 വഴി പോകാം അല്ലെങ്കിൽ S3ഇൽ T2 വഴി പോകാം അപ്പോൾ ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സമാന്തരമായി പ്രവർത്തിക്കാം അതായത് S4 ഒപ്പം S5 സജീവം ആണെങ്കിൽ T2 നിബന്ധന പാലിക്കും എന്നിട്ട് S1ഇൽ ജമ്പ് ചെയ്യും ഇങ്ങനെ ആയിരിക്കും കൺട്രോൾ നീക്കം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1438 ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ എത്തി ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് സീക്വൻസ് കൺട്രോളിന്റെ ഘടനാപരമായ രൂപകല്പന ആയിരുന്നു അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1453 ഇത് വളരെ പ്രധാനമാണ് ആദ്യം ചെയ്യേണ്ടത് സിസ്റ്റം ഇൻപുട്ട് ഒപ്പം ഔട്ട്പുട്ട് തിരിച്ചറിയുക എന്നതാണ് അതുകഴിഞ്ഞ് സിസ്റ്റം പെരുമാറ്റം വിശകലനം ചെയ്യണം യാന്ത്രികം അല്ലാത്ത പ്രവർത്തനത്തിന്റെ ആവശ്യകത നോക്കണം ഓപ്പറേറ്റർ സുരക്ഷിതത്വം തകരാർ എന്നിവയും പഠിക്കണം എന്നിട്ട് ഇതിൻറെ വിവരണം ഔപചാരികം ആക്കണം ആദ്യം വിവരണം ഇംഗ്ലീഷിൽ ആയിരിക്കും എന്നിട്ട് ഔപചാരികം ആക്കണം ഈ പാഠഭാഗത്ത് എങ്ങനെയാണ് സ്റ്റേറ്റ് മെഷീൻ വിവരണം ഔപചാരികം ആക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അതായത് സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് ഉപയോഗിച്ച് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1545 ഇവിടെ എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പ്രവർത്തനത്തിനെ ഉദാഹരണത്തിന് സ്റ്റാമ്പിങ് പ്രക്രിയ പരിവർത്തനം ചെയ്തു സ്റ്റേറ്റ് മെഷീൻ ഉണ്ടാക്കാമെന്ന് നമ്മൾ നോക്കി എങ്ങനെ അതിൻറെ ട്രാൻസിഷൻ ലോജിക് സ്റ്റേറ്റ് ലോജിക് ഒപ്പം ഔട്ട്പുട്ട് ലോജിക് അനുസരിച്ച് പ്രോഗ്രാം എഴുതാമെന്ന് നോക്കി നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ തെറ്റുകൾ ഇല്ലാത്ത പ്രോഗ്രാമിലോട്ടു നമ്മളെ നയിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1617 അവസാനം നമ്മൾ ഒരു വാക്യഘടന കണ്ടെത്തി അതായത് സ്റ്റേറ്റ് ഒപ്പം ട്രാൻസിഷൻ ആവിഷ്കരിക്കാൻ കഴിവുള്ള ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് കണ്ടെത്തി അപ്പോൾ സ്വീകുവെന്ഷിയൽ ഫങ്ക്ഷൻ ചാർട്ട് ഉപയോഗിച്ച് പ്രോഗ്രാം വിവരിക്കാം അത് ഞാൻ അവസാനിക്കുന്നതിന് മുന്നേ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾക്ക് നോക്കാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1656 ആദ്യത്തെ ചോദ്യം നമ്മൾക്ക് നോക്കാം ഇത് പറയുന്നത് അത് ട്രാഫിക് ലൈറ്റ് കോൺട്രോളിനു വേണ്ടി ഒരു RLL പ്രോഗ്രാം വികസിപ്പിക്കാൻ ആണ് രണ്ട് ദിശയിലുള്ള ട്രാഫിക് ലൈറ്റിന് ക്രോസ്സ്വാക് ബട്ടൺ വേണം സാധാരണ ലൈറ്റ് സീക്വൻസിൽ പച്ച ലൈറ്റ് 16 സെക്കൻഡ് ഒപ്പം മഞ്ഞ ലൈറ്റ് 4 സെക്കൻഡ് ആയിരിക്കും ക്രോസ്സ്വാക് ബട്ടൺ അമർത്തിയാൽ വാക് ലൈറ്റ് 10 സെക്കൻഡ് ഓൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പച്ച ലൈറ്റ് 24 സെക്കൻഡ് ആയി മാറും ഇത്രയും വിവരണം ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കടമ്പ സ്റ്റേറ്റ് മെഷീൻ ഉണ്ടാക്കുക എന്നതാണ് എന്നിട്ട് ഇതിനെ SFC അടിസ്ഥാനത്തിൽ എഴുതണം SFC ചെയ്യുമ്പോൾ നമ്മൾക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ഇവിടെ കർശനം അല്ല ഇതിൻറെ SFC ഒന്നു നോക്കാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1830 രണ്ടാമത്തെ ചോദ്യം നോക്കിയിട്ട് SFC കാണാം അടുത്ത ചോദ്യം പറയുന്നത് ഒരു ഗാരേജ് ഡോർ കൺട്രോളർ SFC ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യാനാണു അതിൻറെ വിവരണം ഇങ്ങനെയാണ് റിമോട്ട് കൺട്രോളിൽ ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ ബട്ടൺ അമർത്തുമ്പോൾ ഡോർ താഴോട്ടോ മുകളിലോട്ടോ നീങ്ങും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 1917 ഒരു പ്രാവശ്യം ബട്ടൺ അമർത്തുമ്പോൾ ഡോർ താഴോട്ടോ മുകളിലോട്ടോ നീങ്ങും ഡോർ നീങ്ങുമ്പോൾ ബട്ടൺ അമർത്തിയാൽ ഡോർ നിൽക്കും രണ്ടാമത്തെ പ്രാവശ്യം ബട്ടൺ അമർത്തിയാൽ ഡോർ എതിർദിശയിൽ നീങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ബട്ടൺ ആണ് ഉള്ളത് ഒരു പ്രാവശ്യം ബട്ടൺ അമർത്തുമ്പോൾ ചിലപ്പോൾ ഡോർ മുകളിൽ പോകും അടുത്ത പ്രാവശ്യം ബട്ടൺ അമർത്തുമ്പോൾ ഡോർ നിൽക്കും പിന്നെയും ബട്ടൺ അമർത്തിയാൽ ഡോർ എതിർദിശയിൽ സഞ്ചരിക്കും അതിനാൽ നിങ്ങൾക്ക് കാണാം ഇത് ഒരു സ്വീകുവെന്ഷിയൽ രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബട്ടൺ അമർത്തുമ്പോൾ ചിലപ്പോൾ അത് നിൽക്കും ചിലപ്പോൾ അത് മുകളിൽ പോകും ചിലപ്പോൾ താഴോട്ട് പോകും ഇങ്ങനെ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്യപ്പെടണം എങ്കിൽ സ്റ്റേറ്റ് എന്ന ഒരു ആശയം ഇവിടെ കൊണ്ടുവരണം ഡിജിറ്റൽ ലോജിക് സർക്യുട്ട് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് സർക്യുട്ട് സ്വീകുവെന്ഷിയൽ ആണെങ്കിൽ അവിടെ മെമ്മറി ഉണ്ട് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2009 ഇവിടെ ടോപ് ബോട്ടം ലിമിറ്റ് സ്വിച്ച് ഉണ്ട് ഡോർ നിർത്താൻ ബട്ടൺ അമർത്തുമ്പോൾ ഡോർ ഏതെങ്കിലും ദിശയിൽ സഞ്ചരിക്കും അതിനാൽ എവിടെയെങ്കിലും പിടിച്ചുനിർത്താൻ നമ്മൾക്ക് ലിമിറ്റ് സ്വിച്ച് വേണം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2016 ഡോർ അടിഭാഗത്തിനു എതിരെ ഒരു പ്രകാശ രശ്മി ഉണ്ട് പ്രകാശ രശ്മിയിൽ തടസ്സം നേരിട്ടാൽ ഡോർ നിൽക്കും എന്നിട്ട് തിരിച്ച് എതിർദിശയിൽ സഞ്ചരിക്കും ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാറിൻറെ ഒരു ഭാഗം പുറത്തോട്ട് കിടക്കുവാണെങ്കിൽ അതിനെ മാറി കിടന്നു ഡോറിനു പോകാൻ സാധിക്കുകയില്ല അങ്ങനെ സംഭവിച്ചാൽ ഡോർ വന്നു കാറിൽ ഇടിക്കും പ്രകാശ രശ്മിയിൽ തടസ്സം വന്നില്ലെങ്കിൽ മാത്രമേ ഡോർ പൂർണ്ണമായും അടയു ഒരു തടസ്സം നേരിട്ടാൽ ഡോർ നിൽക്കും എന്നിട്ട് തിരിച്ച് എതിർദിശയിൽ സഞ്ചരിക്കും അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2114 ഒരു ഗാരേജ് ലൈറ്റ് ഉണ്ട് അത് 5 മിനിട്ട് ഡോർ തുറന്നതിന് അല്ലെങ്കിൽ അടച്ചതിന് ശേഷം തെളിഞ്ഞു കിടക്കും അതിനാൽ ഇവിടെ ഒരു ടൈമർ ഉപയോഗിക്കണം ക്ഷമിക്കണം ഏതു പ്രവർത്തനം ചെയ്തതിനു ശേഷവും ലൈറ്റ് 5 മിനിട്ട് തെളിഞ്ഞു കിടക്കണം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2141 ആദ്യം അടുത്തതിൽ നോക്കാം അത് കുറച്ചുകൂടി എളുപ്പമാണ് അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2143 ഗാരേജ് ഡോർ എങ്ങനെയാണ് രൂപകല്പന ചെയ്തത് എന്ന് നോക്കാം ബട്ടൺ അമർത്തുമ്പോൾ സ്റ്റെപ് 1 ഇൽ നിന്ന് സ്റ്റെപ് 2 ഇൽ പോകും പിന്നീട് സ്റ്റെപ് 3 ഇൽ പോകും ഇതാണ് അടഞ്ഞ ഡോർ ഇനി തിരിച്ചു പോകാം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2210 അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2212 ഗാരേജിൽ ഒറ്റ ബട്ടൺ മാത്രമേയുള്ളൂ ഒപ്പം റിമോട്ട് കൺട്രോളിൽ ഒറ്റ ബട്ടൺ മാത്രമേയുള്ളൂ അതായത് ഒന്നെങ്കിൽ ഗാരേജിൽ ബട്ടൺ അമർത്താം അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൽ ബട്ടൺ അമർത്താം അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2227 ശരി അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2228 അപ്പോൾ ഇവിടെ അവലംബിക്കുന്ന സ്ലൈഡ് സമയം 2229 2 തരത്തിലുള്ള ബട്ടൺ ഉണ്ട് ഗാരേജിൽ നിന്ന് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ സ്റ്റെപ് 3ഇൽ എത്തും ഒപ്പം ഡോർ അടയും ഇതാണ് ഔട്ട്പുട്ട് ഗാരേജിൽ നിന്ന് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ ഡോർ നിൽക്കും അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ച് എത്തിയാൽ ഡോർ നിൽക്കും അതിനാൽ ഏതെങ്കിലുമൊരു ബട്ടൺ അമർത്തിയാൽ അല്ലെങ്കിൽ ബോട്ടം ലിമിറ്റ് സ്വിച്ച് എത്തിയാൽ ഡോർ നിൽക്കും അല്ലെങ്കിൽ പ്രകാശ രശ്മിയിൽ തടസ്സം നേരിട്ടാലും ഡോർ നിൽക്കും അതിനുശേഷം എതിർദിശയിൽ സഞ്ചരിക്കും ഇവിടെ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ആദ്യം ബട്ടൺ അമർത്തി ഡോർ നിർത്തും എന്നിട്ട് അടുത്ത പ്രാവശ്യം ബട്ടൺ അമർത്തിയാൽ ഡോർ എതിർദിശയിൽ സഞ്ചരിക്കും അങ്ങനെ നമ്മൾ ഗാരേജ് ഡോർ പ്രവർത്തനം ആവിഷ്കരിച്ചു സമാനമായി ട്രാഫിക് ലൈറ്റ് ചോദ്യം ചെയ്തു നോക്കൂ അങ്ങനെ ഈ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു വളരെയധികം നന്ദി അടുത്ത പാഠഭാഗത്തിൽ കാണാം Glossary English Word Word Meaning Transition State ട്രാൻസിഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് Jump ജമ്പ് ചാട്ടം Scan സ്കാൻ സൂക്ഷ്മമായി പരിശോധിക്കുക International Electro Technical Commission ഇൻറർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ ഇൻറർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ Graphical Language ഗ്രാഫിക്കൽ ലാംഗ്വേജ് ഗ്രാഫിക്കൽ ലാംഗ്വേജ് Functional Block Diagram ഫങ്ക്ഷണൽ ബ്ലോക്ക് ഡയഗ്രം ഫങ്ക്ഷണൽ ബ്ലോക്ക് ഡയഗ്രം Ladder Diagram ലാഡർ ഡയഗ്രം ലാഡർ ഡയഗ്രം Microprocessor മൈക്രോപ്രോസസ്സർ മൈക്രോപ്രോസസ്സർ Multitasking മൾട്ടിടാസ്കിങ് സമകാലവർത്തിയായ പ്രവർത്തനങ്ങൾ ഒരേ സമയം ചെയുക Program Control Statements പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ പ്രോഗ്രാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ Control Program Module കൺട്രോൾ പ്രോഗ്രാം മൊഡ്യൂൾ കൺട്രോൾ പ്രോഗ്രാം മൊഡ്യൂൾ Crosswalk ക്രോസ്സ്വാക് മുറിച്ചു കടക്കുക Walk light വാക് ലൈറ്റ് വാക് ലൈറ്റ് Garage Door Controller ഗാരേജ് ഡോർ കൺട്രോളർ ഗാരേജ് ഡോർ കൺട്രോളർ Remote Control റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ Digital Logic Circuit ഡിജിറ്റൽ ലോജിക് സർക്യുട്ട് ഡിജിറ്റൽ ലോജിക് സർക്യുട്ട് State സ്റ്റേറ്റ് അവസ്ഥ State Logic സ്റ്റേറ്റ് ലോജിക് സ്റ്റേറ്റ് ലോജിക് Limit Switch ലിമിറ്റ് സ്വിച്ച് ലിമിറ്റ് സ്വിച്ച് State Machine സ്റ്റേറ്റ് മെഷീൻ സ്റ്റേറ്റ് മെഷീൻ Timer ടൈമർ ടൈമർ Counter കൌണ്ടർ കൌണ്ടർ Sequence Control സീക്വൻസ് കണ്ട്രോൾ സീക്വൻസ് കണ്ട്രോൾ Sequential Function Chart സ്വീകുവെന്ഷിയൽ ഫംഗ്ഷൻ ചാർട്ട് സ്വീകുവെന്ഷിയൽ ഫംഗ്ഷൻ ചാർട്ട് Push Button പുഷ് ബട്ടൺ പുഷ് ബട്ടൺ Sensor സെൻസർ സെൻസർ Input ഇൻപുട്ട് ഇൻപുട്ട് Output ഔട്ട്പുട്ട് ഔട്ട്പുട്ട് On ഓൺ ആരംഭിക്കുക Off ഓഫ് അവസാനിക്കുക Control കൺട്രോൾ നിയന്ത്രണം System സിസ്റ്റം സിസ്റ്റം Flow Chart ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് Automated ഓട്ടോമേറ്റഡ് യന്ത്രികം Transition ട്രാൻസിഷൻ മാറ്റം Stamping സ്റ്റാമ്പിങ് സ്റ്റാമ്പിങ് Rest Push Button റീസെറ്റ് പുഷ് ബട്ടൺ റീസെറ്റ് പുഷ് ബട്ടൺ Bottom Limit Switch ബോട്ടം ലിമിറ്റ് സ്വിച്ച് ബോട്ടം ലിമിറ്റ് സ്വിച്ച് Top limit Switch ടോപ് ലിമിറ്റ് സ്വിച്ച് ടോപ് ലിമിറ്റ് സ്വിച്ച് State Transition Diagram സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം Table ടേബിൾ ടേബിൾ Relay Ladder Logic റിലേ ലാഡർ ലോജിക് റിലേ ലാഡർ ലോജിക് Program പ്രോഗ്രാം പ്രോഗ്രാം Block ബ്ലോക്ക് ഭാഗം State Graph സ്റ്റേറ്റ് ഗ്രാഫ് സ്റ്റേറ്റ് ഗ്രാഫ് Enable Logic ഇനേബിൾ ലോജിക് ഇനേബിൾ ലോജിക് Manual Down Push Button മാനുവൽ ഡൌൺ പുഷ് ബട്ടൺ മാനുവൽ ഡൌൺ പുഷ് ബട്ടൺ Memory മെമ്മറി ഓർമ്മ Temporary Variable ടെമ്പററി വേരിയബൽ താത്കാലികമായ വേരിയബൽ Coil കോയിൽ കോയിൽ